ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ക്ലാസിലേക്ക് തിരികെ സ്വാഗതം ഞങ്ങൾ ബിസിനസ്സ് എത്തിക്സ് ചർച്ച ചെയ്യുകയായിരുന്നു ഇനി ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജരുടെ ജീവിതത്തിന് ഈ എത്തിക്സ് എങ്ങനെ ബാധകമാണ് എന്ന വിഷയത്തിലേക്ക് നമ്മൾ കടക്കും ഹ്യൂമൻ റിസോഴ്സ് മാനേജർമാർ എടുത്ത തീരുമാനത്തെ ഇവ എങ്ങനെ ബാധിക്കുമെന്ന് നമുക്ക് സംസാരിക്കാം അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജർമാർ എന്ന നിലയിലുള്ള അവരുടെ റോളുകളിൽ അവർ എന്താണ് കൈകാര്യം ചെയ്യേണ്ടത് ക്രിസ്റ്റി ക്രിസ്റ്റി Christy Christy ക്രെയിൻ മാറ്റൻ Crane Matten ഗോമസ് മെജിയ ബാൽകിൻ കാർഡി Gomez Mejia Balkin Cardy അതിനാൽ അതേ പുസ്തകങ്ങൾ എച്ച്ആർഎം പ്രവർത്തനങ്ങളുടെ നൈതിക വശങ്ങൾ ഞങ്ങൾ ഇവിടെ കൈകാര്യം ചെയ്യുന്ന ആദ്യത്തെ പോയിന്റിനെ വിസിൽബ്ലോയിംഗ് എന്ന് വിളിക്കുന്നു വളരെ വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യം എന്താണ് വിസിൽബ്ലോയിംഗ് വിസിൽബ്ലോയിംഗ് എന്നത് നിലവിലുള്ള ഒരു ജീവനക്കാരൻ അവന്റെ അല്ലെങ്കിൽ അവളുടെ സ്ഥാപനം ഏർപ്പെടുന്നതോ അല്ലെങ്കിൽ സഹപ്രവർത്തകർ ഇടപെടുന്നതോ ആയ അധാർമ്മികമായ പെരുമാറ്റം വെളിപ്പെടുത്താൻ തീരുമാനിക്കുമ്പോഴാണ് അതിനാൽ കമ്പനി അതിന്റെ ഉൽപ്പന്നത്തിലൂടെയോ നയത്തിലൂടെയോ അധാർമ്മികമാകാൻ സാധ്യതയുള്ളപ്പോൾ വിസിൽബ്ലോയിംഗ് ഒരു നല്ല ആശയമാണ് എപ്പോഴാണ് വിസിൽബ്ലോയിംഗ് ഒരു നല്ല ആശയം എപ്പോഴാണ് നിങ്ങളുടെ സഹപ്രവർത്തകരിലോ നിങ്ങളുടെ സ്ഥാപനത്തിലോ നിങ്ങൾ വിസിൽ മുഴക്കേണ്ടത് അതിനാൽ ഇത് വളരെ നല്ല ആശയമാണ് നിങ്ങൾക്കത് നന്നായി ചെയ്യാൻ കഴിയുമോയെന്ന് എനിക്കറിയില്ല എന്നാൽ സ്ഥാപനം അതിന്റെ ഉൽപ്പന്നത്തിലൂടെയോ നയത്തിലൂടെയോ ജീവനക്കാർക്കോ പൊതുജനങ്ങൾക്കോ ഗുരുതരമായതും ഗണ്യമായതുമായ ദോഷം വരുത്താൻ സാധ്യതയുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാൻ കഴിയും ആസന്നമായ ദ്രോഹമുണ്ടെന്ന് നിങ്ങൾ കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ സ്ഥാപനം ചെയ്യുന്നതെന്തും ഏതെങ്കിലും വിധത്തിൽ സമൂഹത്തിന് ദോഷം ചെയ്യുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ അല്ലെങ്കിൽ പൊതുനന്മയ്ക്കോ ജീവനക്കാർക്കോ എന്തെങ്കിലും ദോഷം വരുത്തുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഈ പ്രവർത്തനങ്ങൾ റിപ്പോർട്ട് ചെയ്യാവൂ അതിനുശേഷം മാത്രമേ നിങ്ങൾ ഈ പ്രവർത്തനങ്ങൾ റിപ്പോർട്ട് ചെയ്യാവൂ എങ്കിൽ മാത്രമേ ഈ പ്രവർത്തനങ്ങൾ അനീതിയായി കണക്കാക്കാൻ കഴിയൂ ഇവിടെ മറ്റൊരു കാര്യം ജീവനക്കാർ ഗുരുതരമായ ഭീഷണി തിരിച്ചറിഞ്ഞുകഴിഞ്ഞാൽ അത് അവരുടെ സൂപ്പർവൈസർക്ക് ഉടനടി റിപ്പോർട്ട് ചെയ്യാനും അവരുടെ ധാർമ്മിക ആശങ്ക അറിയിക്കാനും അവർക്ക് കഴിയും അതിനാൽ നിങ്ങൾ എല്ലായ്പ്പോഴും എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങളുടെ സൂപ്പർവൈസറെ അറിയിക്കണം നിങ്ങളുടെ ഓർഗനൈസേഷനായി ആർക്കെങ്കിലുമെതിരെ വിസിൽ അടിക്കാൻ തീരുമാനിക്കുന്നതിന് മുമ്പ് ആ പ്രവർത്തനം പരിഹരിക്കാൻ നിങ്ങളെ സഹായിക്കാൻ അവർക്ക് കഴിയുമോ എന്ന് ചോദിക്കുകയും വേണം മൂന്നാമത്തെ സാഹചര്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയുന്ന മൂന്നാമത്തെ അവസ്ഥ നിങ്ങളുടെ സൂപ്പർവൈസർ ആശങ്കകളെക്കുറിച്ച് ഫലപ്രദമായി ഒന്നും ചെയ്തില്ലെങ്കിൽ ആണ് നിങ്ങൾക്കറിയാമോ എന്തെങ്കിലും ആരെയെങ്കിലും ദ്രോഹിക്കാൻ പോകുന്നു നിങ്ങളുടെ ഉടനടി സൂപ്പർവൈസറെ നിങ്ങൾ അറിയിച്ചു ഉടനടി സൂപ്പർവൈസർ അതിനെക്കുറിച്ച് ഒന്നും ചെയ്യേണ്ടതില്ലെന്ന് തീരുമാനിച്ചു അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞില്ല കൂടാതെ ഒരു ജീവനക്കാരൻ എന്ന നിലയിൽ നിങ്ങൾ സ്ഥാപനത്തിനുള്ളിലെ മറ്റ് ആന്തരിക നടപടിക്രമങ്ങളും സാധ്യതകളും തീർത്തിരിക്കുന്നു നിങ്ങളുടെ കഴിവിൽ നിങ്ങൾ എല്ലാം പരീക്ഷിച്ചു നിങ്ങൾ ഇത് ആളുകളെ അറിയിച്ചു നിങ്ങൾ നിങ്ങളുടെ സൂപ്പർവൈസറോട് സംസാരിച്ചു അനഭിലഷണീയമായ പ്രവർത്തനങ്ങൾ റിപ്പോർട്ടുചെയ്യുന്നതിന് ഓർഗനൈസേഷന് ഉള്ള എല്ലാ സാധ്യമായ മാർഗ്ഗങ്ങളിലൂടെയും നിങ്ങൾ കടന്നുപോയി കൂടാതെ ഇപ്പോഴും അതിൽ നിന്ന് ഒന്നും പുറത്തുവന്നിട്ടില്ല ആ സമയത്ത് നിങ്ങൾക്ക് വിസിൽബ്ലോയിംഗ് അവലംബിക്കാം അതായത് പൊതുജനങ്ങളോട് പറയുക പൊതുജനങ്ങളിൽ നിന്ന് പിന്തുണ ലഭിക്കുന്നു അല്ലെങ്കിൽ സംഘടനയെ കോടതിയിലേക്ക് കൊണ്ടുപോകാം കമ്പനിയുടെ ഉൽപ്പന്നമോ പ്രയോഗമോ പൊതുജനത്തിനോ ഉപയോക്താവിനോ ഗുരുതരവും സാധ്യതയുള്ളതുമായ അപകടമുണ്ടാക്കുന്നുവെന്ന് ന്യായമായ നിഷ്പക്ഷ നിരീക്ഷകനെ ബോധ്യപ്പെടുത്തുന്ന ഡോക്യുമെന്ററി തെളിവുകൾ ഇല്ലെങ്കിൽ ദയവായി ഇത് ചെയ്യരുത് നിങ്ങൾക്ക് വിസിൽ ബ്ലോ ചെയ്യാനാവില്ല മറ്റൊരാൾക്ക് ഗുരുതരമായ ദോഷം വരുത്തുന്ന പ്രയോഗത്തിന്റെയോ ഉൽപ്പന്നത്തിന്റെയോ ഡോക്യുമെന്ററി തെളിവുകൾ ലഭിക്കുന്നതുവരെ നിങ്ങൾ വിസിൽബ്ലോയിംഗ് അവലംബിക്കരുത് നിങ്ങൾക്ക് ഇത് തെറ്റാണെന്ന് തോന്നുന്നതിനാൽ നിങ്ങൾക്ക് ഡോക്യുമെന്ററി തെളിവുകൾ ഇല്ലെങ്കിൽ അത് തെറ്റായി കണക്കാക്കില്ല നിങ്ങൾ ഒരിക്കലും കാഷ്വൽ അഭിപ്രായങ്ങൾ പറയരുത് കാരണം നിയമം അതിനെ പിന്തുണയ്ക്കുന്നില്ല അനുരൂപമായ നിരീക്ഷണങ്ങളെ നിയമം പിന്തുണയ്ക്കുന്നില്ല ഡോക്യുമെന്ററി തെളിവുകളെ മാത്രമേ നിയമം പിന്തുണയ്ക്കൂ അതിനാൽ ദയവായി ശ്രദ്ധിക്കുക പൊതുജനങ്ങളിലേക്ക് പോകുന്നതിലൂടെ ആവശ്യമായ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് അവൻ അല്ലെങ്കിൽ അവൾ ഉറപ്പാക്കുമെന്ന് വിശ്വസിക്കാൻ ജീവനക്കാരന് നല്ല കാരണങ്ങളുണ്ട് ഇത് നിയമപരമായ ആവശ്യകതയല്ല പക്ഷേ ഇത് ഒരു പ്രായോഗിക നിർദ്ദേശമാണ് വിസിൽബ്ലോയിംഗ് ഒരുപാട് ബുദ്ധിമുട്ടുകൾ കൊണ്ടുവരുന്നു ആ ബുദ്ധിമുട്ടുകൾ നേരിടാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ദയവായി തുടരുക പക്ഷേ അതിനെക്കുറിച്ച് എന്തെങ്കിലും ചെയ്യുമെന്ന് നിങ്ങൾക്കറിയുന്നതുവരെ വിസിൽ മുഴക്കുന്നത് വളരെ നല്ല ആശയമായിരിക്കില്ല ഒരു ഉൽപ്പന്നത്തെക്കുറിച്ചോ നന്നായി പ്രവർത്തിക്കാത്ത ഒരു സമ്പ്രദായത്തെക്കുറിച്ചോ അല്ലെങ്കിൽ എവിടെയോ തെറ്റായി സംഭവിക്കുന്നതിനെക്കുറിച്ചോ നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് ഡോക്യുമെന്ററി തെളിവുകൾ ഉണ്ട് തീർച്ചയായും ഡോക്യുമെന്ററി തെളിവുകൾ പിന്തുണയ്ക്കുന്നു നിങ്ങൾക്ക് ആവശ്യമുള്ള ഫലങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് ഡോക്യുമെന്ററി തെളിവുകൾ വേണ്ടത്ര ശക്തമാണെങ്കിൽ എല്ലാ വിധത്തിലും അതുമായി മുന്നോട്ട് പോകുക പക്ഷേ ഒരു ഘട്ടത്തിൽ നിങ്ങൾ ഈ പോരാട്ടത്തിൽ വിജയിച്ചതിന്റെ ചില സൂചനകൾ ഉണ്ടായിരിക്കണം വിസിൽ ബ്ലോവേഴ്സിനെ നിരുത്സാഹപ്പെടുത്താൻ ഞാൻ ശ്രമിക്കുന്നില്ല ദയവുചെയ്ത് അത് അങ്ങനെ എടുക്കരുത് നിങ്ങൾ അത് ചെയ്യാൻ തീരുമാനിക്കുന്നതിന് മുമ്പ് നിങ്ങൾ വളരെ ശക്തരായിരിക്കണം കൂടാതെ നിങ്ങൾ എല്ലാ കാര്യങ്ങൾ ചെയ്തിട്ടും കാര്യങ്ങൾ ശരിയായി നടക്കുന്നില്ലെങ്കിൽ ഏതുവിധേനയും നിങ്ങൾ അവരെ കുറിച്ചുള്ള കാര്യങ്ങൾ തുറന്ന് പറയുക കാരണം നിങ്ങൾ ചെയ്തില്ലെങ്കിൽ മറ്റാരാണ് അത് ചെയ്യുക ഈ അവസരത്തിൽ നമ്മൾ എല്ലാവരും ഗെയിം മാറ്റുന്നവരായിരിക്കണം എന്നാൽ അതേ സമയം ഒരാൾ പ്രായോഗികമായിരിക്കണം അതിനാൽ നിങ്ങളുടെ ട്രാക്കുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ വാദം ഉറച്ച യുക്തിയിലും ഹാർഡ് കോർ ഡോക്യുമെന്ററി തെളിവുകളിലും വേരൂന്നിയതാണോ എന്ന് ഉറപ്പാക്കുക എന്നിട്ട് എല്ലാ വിധത്തിലും പോയി പോരാടുക നിങ്ങൾ പോരാടാനാണ് അവിടെയുള്ളത് എച്ച്ആർ മാനേജർമാർ കൈകാര്യം ചെയ്യുന്ന മറ്റൊരു പ്രശ്നം ജീവനക്കാരുടെ പ്രതിഫലമാണ് എച്ച്ആർ മാനേജർമാരേ വിസിൽബ്ലോയിംഗ് എങ്ങനെ നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നോക്കാൻ നമുക്ക് അൽപ്പം പിന്നോട്ട് പോകാം കൂടാതെ ഒരു എച്ച്ആർ മാനേജരുടെ ജോലിയുമായി വിസിൽബ്ലോയിംഗ് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് നിങ്ങൾ ചോദിച്ചേക്കാം ഒരു എച്ച്ആർ മാനേജർ എന്ന നിലയിൽ ജീവനക്കാരെ പിന്തുണയ്ക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് പക്ഷേ നേരിന്റെ പക്ഷം സംരക്ഷിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ബിസിനസ്സ് എത്തിക്സ് പഠിക്കുന്നത് വിസിൽബ്ലോവർ ഇതെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു എച്ച്ആർ മാനേജർ എന്ന നിലയിൽ വിസിൽബ്ലോവറെ പിന്തുണയ്ക്കണോ വേണ്ടയോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം എച്ച്ആർ മാനേജർമാർ നിരന്തരം കൈകാര്യം ചെയ്യുന്ന മറ്റൊരു പ്രശ്നം ജീവനക്കാരുടെ പ്രതിഫലമാണ് ന്യായവും വസ്തുനിഷ്ഠവുമായ സംവിധാനങ്ങൾ നിങ്ങൾ എങ്ങനെ ഉറപ്പാക്കും അല്ലെങ്കിൽ ഒരു ആനുകൂല്യ പാക്കേജ് രൂപകൽപന ചെയ്യുന്നതിന്റെ ന്യായം നിങ്ങൾ എങ്ങനെ ഉറപ്പാക്കും റിവാർഡ് സംവിധാനങ്ങൾ വിതരണം ചെയ്യുന്നതിലെ നീതി മറ്റുള്ളവരേക്കാൾ മികച്ച പ്രകടനം കാഴ്ചവയ്ക്കുന്ന ജീവനക്കാർക്ക് പ്രതിഫലം എന്നിവ നിങ്ങൾ എങ്ങനെ ഉറപ്പാക്കും അതിനാൽ എച്ച്ആർ മാനേജർമാർ എന്ന നിലയിൽ നാമെല്ലാവരും കൈകാര്യം ചെയ്യുന്ന വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എച്ച്ആർ മാനേജർമാർ എന്ന നിലയിൽ ഞങ്ങൾ കൈകാര്യം ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് ന്യായവും ഫാറ്റ് കാറ്റ് വേതനവും ഫാറ്റ് കാറ്റ് വേതനമെന്നാൽ ഇക്കാലത്ത് മുതിർന്ന എക്സിക്യൂട്ടീവുകൾക്ക് നൽകുന്ന അമിതമായ ശമ്പളമല്ലാതെ മറ്റൊന്നുമല്ല മുതിർന്ന ഉദ്യോഗസ്ഥർ ശരിക്കും ഇതിന് അർഹരാണോ എന്നതാണ് ഇപ്പോഴത്തെ ചർച്ച നിങ്ങൾ ഈ മുതിർന്ന ആളുകൾ അവർക്ക് ലഭിക്കുന്ന ശമ്പളത്തിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാപനത്തിന് നൽകുന്ന സംഭാവനയുടെ ഒരു കോസ്റ്റ് ബെനിഫിറ്റ് വിശകലനം നടത്തുകയാണെങ്കിൽ അവരുടെ സംഭാവനകളിൽ നിന്ന് സ്ഥാപനത്തിന് ഗണ്യമായ ലാഭമുണ്ടോ ഇല്ലയോ ഇല്ലെങ്കിൽ പിന്നെ എന്തിന് അവർക്ക് ഈ കനത്ത ശമ്പളം കൊടുക്കണം അതൊരു ചർച്ചയാണ് അത് നടക്കുന്നുണ്ട് അവർ അതിനെ ഫാറ്റ് ക്യാറ്റ് ശമ്പളം അല്ലെങ്കിൽ ഫാറ്റ് കാറ്റ് വേതനം എന്ന് വിളിക്കുന്നു അതിനർത്ഥം സീനിയർ എക്സിക്യൂട്ടീവുകൾക്ക് യഥാർത്ഥത്തിൽ അർഹിക്കുന്നതിലും കൂടുതൽ പണം ലഭിക്കുന്നുണ്ടെന്ന് ധാരാളം ആളുകൾ കരുതുന്നു അതിനാൽ അമിതമായ ശമ്പളവും ദശലക്ഷക്കണക്കിന് ഡോളറുകളും അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപയും കൂടാതെ ഈ ആളുകൾക്ക് യഥാർത്ഥത്തിൽ അത്രയും ശമ്പളം നൽകേണ്ടതുണ്ടെന്ന് അതിന്റെ പങ്കാളികളെ ബോധ്യപ്പെടുത്തുന്നത് ചിലപ്പോൾ സ്ഥാപനത്തിന് ബുദ്ധിമുട്ടാണ് കാരണം അവർ ചെയ്യുന്നതിന്റെ മൂർത്തവും അദൃശ്യവുമായ നേട്ടങ്ങൾ യഥാർത്ഥത്തിൽ അവർക്ക് പ്രതിഫലം നൽകുന്നതിനെ മറികടക്കുന്നു അതുകൊണ്ട് തന്നെ വീണ്ടും ഈ വിവാദത്തിൽ അകപ്പെടാതിരിക്കാൻ സംഘടന അതീവ ജാഗ്രത പുലർത്തണം കൂടാതെ ന്യായമായ വിതരണം അല്ലെങ്കിൽ ശമ്പളത്തിന്റെ ന്യായമായ വിതരണം സ്ഥാപനം ഉറപ്പാക്കണം കൂടാതെ തീരുമാനമെടുക്കൽ കഴിയുന്നത്ര ന്യായവും സുതാര്യവുമായിരിക്കണം ചില കൂടുതൽ ധാർമ്മിക വശങ്ങൾ നീതിയുടെയും പ്രതിഫലത്തിന്റെയും സൂചന ഞങ്ങൾ ജീവനക്കാർക്ക് പ്രതിഫലം നൽകുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് ആദ്യത്തേത് സുതാര്യതയാണ് ആളുകൾക്ക് പ്രതിഫലം നൽകുന്നതിൽ നിങ്ങൾ എങ്ങനെയാണ് സുതാര്യത ഉറപ്പാക്കുന്നത് പലപ്പോഴും ഞങ്ങളുടെ വിധികൾ ഗുണപരമായ വശത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇത് നല്ലതാണോ അതോ മികച്ചതാണോ ഇത് പ്രയോജനകരമാണോ അതോ ദോഷകരമാണോ ഒരു വ്യക്തിയുടെ സംഭാവനകൾ ഓർഗനൈസേഷനിലേക്ക് കൊണ്ടുവരുന്ന നേട്ടങ്ങൾ നമുക്ക് പലപ്പോഴും കണക്കാക്കാൻ കഴിയില്ല അപ്പോൾ നമ്മൾ എങ്ങനെ തീരുമാനിക്കും ആർക്ക് കിട്ടണം എത്ര കിട്ടണം മറ്റൊന്ന് കോംപ്രിഹെൻസിബിലിറ്റിയും കോംപ്ലക്സിറ്റിയും വളരെ ബുദ്ധിമുട്ടുള്ള നിബന്ധനകൾ തനിക്ക് എന്ത് നേടാനാകുമെന്ന് മനസ്സിലാക്കാനുള്ള ജീവനക്കാരന്റെ കഴിവിനെയാണ് കോംപ്രിഹെൻസിബിലിറ്റി കൈകാര്യം ചെയ്യുന്നത് കോംപ്രിഹെൻസിബിലിറ്റി കോംപ്രിഹെൻഷൻ എന്ന വാക്കിൽ നിന്നാണ് വരുന്നത് അത് കോംപ്രിഹെൻഡ് എന്ന വാക്കിൽ നിന്നാണ് വരുന്നത് അതിനർത്ഥം മനസ്സിലാക്കുക എന്നതാണ് ഈ ആനുകൂല്യ പാക്കേജുകൾ ജീവനക്കാർ മനസ്സിലാക്കുന്നുണ്ടോ വളരെ നീതിയോടെയും സത്യസന്ധതയോടെയും ഞങ്ങളുടെ ജീവനക്കാരോട് കഴിയുന്നത്ര വ്യക്തവും ലളിതവുമായ പദങ്ങളിൽ ഈ ആനുകൂല്യങ്ങളും റിവാർഡ് സംവിധാനങ്ങളും നേടുന്നതിന് അവർ എന്താണ് ചെയ്യേണ്ടതെന്ന് പറയാൻ ഞങ്ങൾക്ക് കഴിയണം എന്തുകൊണ്ട് എങ്ങനെയൊക്കെ എന്തെങ്കിലും നേടാനാകുമെന്ന് എനിക്കറിയണം കമ്പനി പറയുന്നു ഞാൻ നിങ്ങൾക്ക് ഒരു ശമ്പളത്തോടുകൂടിയ അവധി തരാം തുടർന്ന് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളുടെ 3 പേജോ 10 പേജോ ഉള്ള വിവരണം കമ്പനി എനിക്ക് നൽകുന്നു എനിക്കത് മനസ്സിലാകില്ല 5 6 10 പോയിന്ററുകൾ നിങ്ങൾ മേൽനോട്ടം വഹിക്കുമ്പോൾ ഈ നിരവധി വിൽപ്പന ഉയർന്നിരിക്കണം ഇത്രയും പേരെ റിക്രൂട്ട് ചെയ്യണം ആരും സംഘടന വിടുന്നില്ലെന്ന് ഉറപ്പാക്കുക അതിനാൽ വ്യക്തമായ പോയിന്ററുകൾ ഉണ്ടെങ്കിൽ എനിക്ക് എങ്ങനെ ഈ ആനുകൂല്യങ്ങൾ ലഭിക്കുമെന്ന് മനസിലാക്കാൻ എനിക്ക് എളുപ്പമായിരിക്കും എന്നിട്ട് ഞാൻ അവർക്ക് വേണ്ടി പ്രവർത്തിക്കാം കൂടാതെ എനിക്ക് ഒരു ചെക്ക്ലിസ്റ്റ് ഉണ്ടായിരിക്കാം കൂടാതെ എനിക്ക് കാര്യങ്ങൾ പരിശോധിച്ച് അവയ്ക്കായി പ്രവർത്തിക്കാൻ കഴിയും അതിനാൽ അതാണ് കോംപ്രിഹെൻസിബിലിറ്റി ഞങ്ങൾ കൊണ്ടുവരുന്ന ആളുകളുടെ വൈവിധ്യത്തെ ഉൾക്കൊള്ളുക എന്നതാണ് കോംപ്ലക്സിറ്റി അവർക്ക് തിരഞ്ഞെടുക്കാൻ ഒരു വലിയ ആനുകൂല്യ പാക്കേജ് നൽകാൻ ഞങ്ങൾ ശ്രമിക്കുന്നു എല്ലാവരേയും ഉൾക്കൊള്ളാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു പിന്നെ ഞങ്ങൾ പറയുന്നു ശരി ഇതിൽ നിന്നും ഇതിൽ നിന്നും ഇതിൽ നിന്നും തിരഞ്ഞെടുക്കാം അവർക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയണം അതിനാൽ ഞങ്ങൾ ജോലി ചെയ്യുന്ന ആളുകളുടെ വൈവിധ്യത്തെ ഉൾക്കൊള്ളുന്നതിനും അവ ഉപയോഗിക്കാൻ പോകുന്ന ആളുകൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത്ര ലളിതമാക്കുന്നതിനും ഇടയിലുള്ള രേഖ ഞങ്ങൾ എവിടെയാണ് വരയ്ക്കുക അതിനാൽ അത് കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ് പിന്നെ അവസര സമത്വം ജോൺ റോൾസ് നിർദ്ദേശിച്ച ന്യായവും നീതിയും ഞാൻ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല ഒരുപക്ഷേ നിങ്ങൾക്കത് നോക്കാം ജോലിക്കാരെന്ന നിലയിൽ നമ്മൾ നമ്മളെ താരതമ്യം ചെയ്യാറുണ്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയ സ്നാപ്പ്ഷോട്ട് തരാം ജീവനക്കാർ എന്ന നിലയിൽ നമ്മുടെ സഹപ്രവർത്തകരിൽ നിന്ന് ഓർഗനൈസേഷനിൽ വ്യത്യസ്ത വകുപ്പുകൾക്കുള്ളിൽ ഒരേ വകുപ്പിനുള്ളിൽ നമുക്ക് ലഭിക്കുന്നത് താരതമ്യം ചെയ്യാൻ നമ്മൾ പ്രവണത കാണിക്കുന്നു അതിനാൽ ഒരേ സ്ഥാപനത്തിനുള്ളിൽ നമ്മൾ ചെയ്യുന്ന അതേ കാര്യം ചെയ്യുന്ന ആളുകളുമായി നമ്മൾ താരതമ്യം ചെയ്യുന്നു അതിനാൽ ഞങ്ങളെപ്പോലെ പരിശീലനം ലഭിച്ചവരും എന്നാൽ വ്യത്യസ്തമായ എന്തെങ്കിലും ചെയ്യുന്നവരും ആയ ആളുകൾ തുടർന്ന് ഒരേ വ്യവസായത്തിൽ ഉള്ളവരുമായി എന്നാൽ ഞങ്ങളുടെ ഓർഗനൈസേഷന് പുറത്തുള്ള ആളുകളുമായി ഞങ്ങൾ സ്വയം താരതമ്യം ചെയ്യാറുണ്ട് കൂടാതെ ഞങ്ങളെപ്പോലെ വൈദഗ്ധ്യവും യോഗ്യതയുമുള്ള എന്നാൽ ഞങ്ങളുടെ സ്ഥാപനത്തിന് പുറത്ത് തികച്ചും വ്യത്യസ്തമായ ഒരു വ്യവസായത്തിൽ പ്രവർത്തിക്കുന്ന മറ്റുള്ളവരുമായി നിങ്ങൾക്കറിയാമോ അതിനാൽ ഇത് സ്വയവും മറ്റുള്ളവരും തമ്മിലുള്ള താരതമ്യമാണ് കൂടാതെ ഈ താരതമ്യങ്ങൾ നമ്മളോട് എത്രത്തോളം നീതിപൂർവമാണ് മറ്റുള്ളവർ പെരുമാറുന്നതെന്ന് തീരുമാനിക്കാൻ അല്ലെങ്കിൽ അനുഭവിക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ഞങ്ങളെ സഹായിക്കുന്നു നിങ്ങൾക്ക് ഇത് ഇന്റർനെറ്റിൽ കൂടുതൽ പരിശോധിക്കാം അങ്ങനെയാണ് ജീവനക്കാരെന്ന നിലയിൽ ഞങ്ങൾക്ക് തുല്യമായ അവസരമാണോ അസമത്വമല്ല മറിച്ച് നമുക്ക് ചെയ്യാൻ കഴിയുന്നതെന്തും ചെയ്യാനുള്ള തുല്യ അവസരമാണോ നൽകുന്നത് എന്ന് ഞങ്ങൾ തീരുമാനിക്കുന്നത് കൂടാതെ ഞങ്ങളോട് ന്യായമായും നീതിയോടെയും പെരുമാറിയിട്ടുണ്ടോ എന്ന് ഞങ്ങൾ തീരുമാനിക്കുന്നു തുല്യ അവസരങ്ങൾ ഓഹരി ഉടമകളുടെ മൂല്യ വീക്ഷണം പൊതു രീതികളിൽ ന്യായവും തുറന്നതുമായ റിക്രൂട്ട്മെന്റ് പരിശീലനം ഒരു ബിസിനസ്സ് വീക്ഷണകോണിൽ നിന്ന് നല്ല അർത്ഥമുണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കാം എന്ത് ചെയ്താലും ലാഭം കിട്ടും ഏത് തരത്തിലുള്ള വിവേചനവും ആത്യന്തികമായി സംഘടനയെ താഴെയിറക്കും താമസിയാതെ അല്ലെങ്കിൽ പിന്നീട് ഞങ്ങൾ ഏർപ്പെടുന്ന ഏതൊരു വിവേചനവും സംഘടനയെ തകർക്കും ആസൂത്രിതമല്ലാത്ത അനന്തരഫലങ്ങളുടെ നിയമം ഒരു പ്രത്യേക രീതിയിൽ പെരുമാറാൻ നിർബന്ധിതരാകുന്നത് അർത്ഥമാക്കുന്നത് തുടർന്നുള്ള പ്രവൃത്തി ഇനി ധാർമ്മിക തിരഞ്ഞെടുപ്പിന്റെ ഒന്നല്ല എന്നാണ് ആരെങ്കിലും എന്റെ തലയിൽ തോക്ക് വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞാൽ ഇതാണ് നീ ചെയ്യേണ്ടത് എന്നാൽ എന്റെ മനസ്സാക്ഷി അനുവദിക്കുന്നില്ലെങ്കിൽ അതിൽ എന്തോ കുഴപ്പമുണ്ട് എന്നോട് ആവശ്യപ്പെടുന്നതെന്തും ശരിയാണെങ്കിൽ അത് ചെയ്യാൻ എന്നെ നിർബന്ധിക്കരുത് ഒന്നുകിൽ അതിന്റെ ശരിയായ കാരണം എന്നോട് പറയുന്നില്ല അല്ലെങ്കിൽ അത് എന്നോട് ശരിയായി വിശദീകരിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ അത് ചെയ്യാൻ നിർബന്ധിതനാകുന്നത് കാരണം ഉണ്ടെങ്കിൽ എനിക്ക് അത് ചെയ്യാൻ കഴിയുമെങ്കിൽ ഞാൻ അത് ചെയ്യും അതിനാൽ ഞങ്ങളോട് ന്യായമായോ അന്യായമായോ പെരുമാറിയിട്ടുണ്ടോ എന്ന് തീരുമാനിക്കാൻ ഞങ്ങളെ സഹായിക്കുന്നത് ഇതാണ് അവസര സമത്വം സാംസ്കാരിക പരിഗണനകൾ അത് സമത്വമോ അസമത്വമോ തുല്യത എന്നതിനർത്ഥം നിങ്ങൾ 10 മണിക്കൂർ ജോലി ചെയ്യുന്നു നിങ്ങൾക്ക് ഇത്രയും ശമ്പളം ലഭിക്കും ഇന്ന് പത്ത് മണിക്കൂർ ജോലി ചെയ്താൽ ഇത്രയും ശമ്പളം കിട്ടും നാളെ നിങ്ങൾ ആറ് മണിക്കൂർ ജോലി ചെയ്താൽ നിങ്ങൾക്ക് ഇത്രയും ശമ്പളം ലഭിക്കും ഇക്വിറ്റബിലിറ്റി പറയുന്നു ഞാൻ രണ്ട് ദിവസം ചെയ്യുന്ന ജോലിയുടെ ആകെ തുക 16 മണിക്കൂർ ആണെങ്കിൽ അത് എന്ത് വ്യത്യാസമാണ് ഉണ്ടാക്കുന്നത് ഞാൻ ഒരു ദിവസം 12 മണിക്കൂർ ജോലി ചെയ്താലും മറ്റൊരു ദിവസം നാല് മണിക്കൂർ ജോലി ചെയ്താലും അല്ലെങ്കിൽ രണ്ട് ദിവസങ്ങളിലും 8 മണിക്കൂർ ജോലി അല്ലെങ്കിൽ ഒരു ദിവസം പത്ത് മണിക്കൂർ ജോലി മറ്റൊരു ദിവസം ആറ് മണിക്കൂർ ജോലി ഔട്ട്പുട്ട് ഒന്നുതന്നെയാണെങ്കിൽ എനിക്ക് അതേ അളവിലുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കണം അതിനാൽ ഇത് തുല്യമാണോ അതോ അതുല്യമാണോ എനിക്കറിയാം ഇത് വളരെ മോശം ഉദാഹരണമാണ് പക്ഷേ നിങ്ങൾക്കറിയാമോ ഇങ്ങനെയാണ് ഞങ്ങൾ തീരുമാനിക്കുന്നത് അതിനാൽ ഞങ്ങൾ അത് ഓരോ കേസിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്നു സന്ദർഭോചിതമായ വീക്ഷണകോണിൽ നിന്ന് കാര്യങ്ങളെ നോക്കാനുള്ള നമ്മുടെ കഴിവിനെയാണ് ഇക്വിറ്റബ്ലിറ്റി കൈകാര്യം ചെയ്യുന്നത് മുമ്പത്തെ പ്രഭാഷണത്തിൽ ഞങ്ങൾ സംസാരിച്ചത് ഇതാണ് അബ്സലൂട്ടിസം വർസസ് റെലറ്റിവിസം ഇക്വാലറ്റി എന്നത് ആബ്സലൂറ്റിസത്തെക്കുറിച്ചാണ് ഇക്വിറ്റബ്ലിറ്റി റെലറ്റിവിസത്തെക്കുറിച്ചാണ് അതിനാൽ ഞങ്ങൾ എങ്ങനെ തീരുമാനിക്കും കൂടാതെ ഇവ സാംസ്കാരികമായി നിർണ്ണയിക്കപ്പെട്ടവയാണ് ഒരു പാശ്ചാത്യൻ അല്ലെങ്കിൽ പാശ്ചാത്യൻ എന്ന് പറയേണ്ടതില്ല വ്യക്തിത്വ സംസ്കാരത്തിൽ വേരൂന്നിയ കമ്മ്യൂണിറ്റി അധിഷ്ഠിത സംസ്കാരത്തിൽ പ്രവർത്തിക്കാൻ വരുന്ന ഒരു സംഘടന ഈ പ്രശ്നം അഭിമുഖീകരിക്കും കാരണം ഒരു വ്യക്തിഗത സംസ്കാരത്തിൽ വേരൂന്നിയ ഒരു സംഘടന കാര്യങ്ങളെ മീൻസ് റ്റൂ എൻഡ് വീക്ഷണകോണിൽ നിന്ന് നോക്കും ലക്ഷ്യങ്ങൾ കൂടുതൽ പ്രധാനമാണ് കമ്മ്യൂണിറ്റി അധിഷ്ഠിത സംസ്കാരങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന ആളുകളെ വേദനിപ്പിക്കാതിരിക്കാൻ കാര്യങ്ങൾ ചെയ്യുന്നതെങ്ങനെയെന്ന് നോക്കാൻ പ്രവണത കാണിക്കുന്നു അതിനാൽ ബാധിക്കപ്പെടുന്ന സമൂഹത്തിലേക്ക് ഞങ്ങൾ നോക്കുന്നു അതിനാൽ ഇവ രണ്ടും ഒരുമിച്ചു ചേരുമ്പോൾ നിങ്ങൾ ആളുകൾക്ക് നൽകുന്നതിന്റെ ഭാഗമായിട്ട് വേണം വഴക്കമുള്ള ജോലി സമയം എന്ന് അവർ മനസ്സിലാക്കുന്നില്ല നിങ്ങൾ കുടുംബം കണക്കിലെടുക്കണം നിങ്ങൾ പ്രാദേശിക അവധികൾ കണക്കിലെടുക്കണം നിങ്ങൾ ആളുകൾക്ക് അവധി നൽകാൻ ശ്രമിക്കുമ്പോൾ x ന്റെ y യുടെ സഹോദരിയുടെ അമ്മയുടെ അമ്മായിയുടെ ബന്ധുവിന്റെ കല്യാണം എന്നിവ കണക്കിലെടുക്കണം നിങ്ങളുടെ അടുത്ത ബന്ധുവിന്റെ സർക്കിളിനുള്ളിലെ ഒരു ഫംഗ്ഷൻ ആയിരിക്കണമെന്ന് നിങ്ങൾക്ക് പറയാനാവില്ല നിങ്ങൾക്കറിയാമോ ഈ കാര്യങ്ങൾ പ്രധാനമാണ് അതിനാൽ ഒരു കാര്യം ന്യായമാണോ അല്ലയോ എന്ന് നമ്മൾ സാംസ്കാരികമായി നിർണ്ണയിക്കുന്നത് ഇങ്ങനെയാണ് വീണ്ടും ഈ തീരുമാനങ്ങൾ എടുക്കേണ്ട എച്ച്ആർ ആളുകൾക്ക് ഇത് ഒരു പ്രശ്നം സൃഷ്ടിക്കുന്നു ന്യായമായ തൊഴിലും സ്ഥിരീകരണ നടപടികളും നിയമവിരുദ്ധമായ വിവേചനത്താൽ തൊഴിൽ തീരുമാനങ്ങളെ ബാധിക്കാത്ത ഏത് സാഹചര്യത്തെയും ന്യായമായ തൊഴിൽ സൂചിപ്പിക്കുന്നു മുൻകാലങ്ങളിൽ വിവേചനം നേരിട്ട ചില ഗ്രൂപ്പുകളെ നിയമിക്കുന്നതിന് തൊഴിലുടമകളെ പ്രേരിപ്പിച്ചുകൊണ്ട് ന്യായമായ തൊഴിൽ എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുക എന്നതാണ് സ്ഥിരീകരണ നടപടിയുടെ ലക്ഷ്യം നമ്മൾ എവിടെയാണ് വര വരയ്ക്കുക ആരോടാണ് നമ്മൾ നീതി പുലർത്തുന്നത് നിലവിലെ സ്ഥാനാർത്ഥികളോട് ഞാൻ നീതിമാനാണോ സമൂഹത്തോട് മൊത്തത്തിൽ ഞാൻ നീതിമാനാണോ സ്ഥിരീകരണ പ്രവർത്തനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പണ്ടുമുതലേ നമ്മുടെ സാമൂഹിക അന്തരീക്ഷത്തോടുള്ള നീതിയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് മുമ്പ് സമൂഹത്തിന്റെ ഒരു പ്രത്യേക ഭാഗത്തെ നാം വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നികത്താനുള്ള നമ്മുടെ അവസരമാണിത് അതാണ് സ്ഥിരീകരണ പ്രവർത്തനം പറയുന്നത് ഇന്ന് എന്റെ കൈയിൽ എന്താണുള്ളത് എന്നതിനെ കുറിച്ച് ന്യായമായ തൊഴിൽ പറയുന്നു ഇന്ന് ഇത് എന്റെ കൈയിൽ ഉണ്ടെങ്കിൽ ഇന്ന് ഞാൻ അത് കൈകാര്യം ചെയ്യും മുൻകാലങ്ങളിൽ സംഭവിച്ചതിന് ഞാൻ ഉത്തരവാദിയല്ല ഭാവിയിൽ എന്ത് സംഭവിക്കും എന്നതിന് ഞാൻ ഉത്തരവാദിയല്ല ഇന്ന് ഇന്ന് എന്റെ കൈയിലുള്ളത് അടിസ്ഥാനമാക്കി ഞാൻ ഇത് എടുക്കും പ്ലസ് അല്ലെങ്കിൽ മൈനസ് അതിനാൽ അവിടെയാണ് ഈ സാഹചര്യം വരുന്നത് വീണ്ടും ഈ പ്രശ്നം വരുന്നു വളരെ സെൻസിറ്റീവായ വിഷയം ഞങ്ങൾ അത് കൈകാര്യം ചെയ്യുമ്പോൾ കഴിയുന്നത്ര വസ്തുനിഷ്ഠമായിരിക്കാൻ ഞാൻ ശ്രമിക്കും വിവേചനം എന്നാൽ ആളുകൾക്കിടയിൽ വേർതിരിവ് ഉണ്ടാക്കുക എന്നാണ് നമ്മൾ ആളുകളെ തമ്മിൽ വേർതിരിക്കുന്നു രണ്ട് തരത്തിലുള്ള വിവേചനങ്ങൾ നിലനിൽക്കുന്നു ഒന്ന് ഒരു ജോലിക്കാരനെ അയാളുടെ അല്ലെങ്കിൽ അവളുടെ സംരക്ഷിത ക്ലാസ് സ്റ്റാറ്റസ് കാരണം വ്യത്യസ്തമായി പരിഗണിക്കുമ്പോൾ സംഭവിക്കുന്ന ഡിസ്പെറിറ്റ് ട്രീറ്റ്മൻറ്റ് മറ്റൊന്ന് ആഡ്വർസ് ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ഡിസ്പെറിറ്റ് ഇമ്പാക്റ്റ് ആണ് എല്ലാ ജീവനക്കാർക്കും ഒരേ സ്റ്റാൻഡേർഡ് ബാധകമാകുമ്പോൾ എന്നാൽ ആ സ്റ്റാൻഡേർഡ് സംരക്ഷിത വിഭാഗത്തെ കൂടുതൽ പ്രതികൂലമായോ ഹാനികരമായോ ബാധിക്കുന്നു അതിനാൽ ഞങ്ങൾ ഡിസ്പെറിറ്റ് ട്രീറ്റ്മൻറിനെക്കുറിച്ചോ ഡിസ്പെറിറ്റിനെക്കുറിച്ചോ സംസാരിക്കുന്നു ക്ഷമിക്കണം ഞാൻ ഈ ഡിസ്പെറിറ്റ് ട്രീറ്റ്മൻറ്റ് എന്ന വാക്ക് ഉച്ചരിക്കുകയാണെങ്കിൽ ഞങ്ങൾ പ്രധാനമായും പറയുന്നത് ഒരു നിശ്ചിത കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ജീവനക്കാരനെ ഞാൻ തിരഞ്ഞെടുക്കും എന്നാണ് അല്ലെങ്കിൽ അവർ ഒരു പ്രത്യേക സമുദായത്തിൽ പെട്ടവരായതുകൊണ്ടോ പ്രായമായതുകൊണ്ടോ ചെറുപ്പമായതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാനദണ്ഡം കൊണ്ടോ ഞാൻ അവരെ തിരഞ്ഞെടുക്കില്ല ആഡ്വർസ് ഇമ്പാക്റ്റ്ക്കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾ പറയുന്നത് ഞാൻ എല്ലാവരോടും നീതിയോടെ പെരുമാറും അങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക വിഭാഗം ആളുകൾക്ക് പരിക്കേൽക്കുകയാണെങ്കിൽ അത് എന്റെ ഉത്തരവാദിത്തമല്ല ഇപ്പോൾ ഇവിടെ വ്യത്യാസങ്ങൾ കൂടുതൽ വ്യക്തമാണ് ഡിസ്പെറിറ്റ് ട്രീറ്റ്മൻറ്റ് എന്നത് നേരിട്ടുള്ള വിവേചനത്തെ സൂചിപ്പിക്കുന്നു ആഡ്വർസ് ഇമ്പാക്റ്റ് സൂചിപ്പിക്കുന്നത് നമ്മൾ തിരിച്ചറിയാത്ത പരോക്ഷമായ വിവേചനത്തെയാണ് അല്ലെങ്കിൽ അതിന്റെ അനന്തരഫലങ്ങൾ എന്തായിരിക്കുമെന്നതിനോട് നമ്മൾ കണ്ണുകൾ അടയ്ക്കുന്നു ഡിസ്പെറിറ്റ് ട്രീറ്റ്മൻറ്റ് അസമമായ ട്രീറ്റ്മൻറ്റ് ആണ് ആഡ്വർസ് ഇമ്പാക്റ്റ് ഫലങ്ങളുടെ അസമമായ അനന്തരഫലങ്ങളെ സൂചിപ്പിക്കുന്നു അതിനാൽ ട്രീറ്റ്മൻറ്റ് ഒന്നുതന്നെയാണ് പക്ഷേ അനന്തരഫലങ്ങൾ വ്യത്യസ്തമാണ് കാരണം ആളുകൾക്ക് വ്യത്യസ്ത സ്വഭാവങ്ങളുണ്ട് ഡിസ്പെറിറ്റ് ട്രീറ്റ്മൻറ്റ് തീരുമാനം വംശീയമോ ലൈംഗികമോ ആയ അടിസ്ഥാനം അല്ലെങ്കിൽ കാരണവുമായി ഇടപെടുന്നു ആഡ്വർസ് ഇമ്പാക്റ്റ് തീരുമാനം വംശീയമോ ലൈംഗികമോ ആയ പ്രത്യാഘാതങ്ങൾ അല്ലെങ്കിൽ ഫലങ്ങൾ കൈകാര്യം ചെയ്യുന്നു അതിനാൽ ഒന്നിൽ നമ്മൾ ആളുകളോട് എങ്ങനെ പെരുമാറുന്നു എന്ന് നിർണ്ണയിക്കുന്നു മറ്റൊന്ന് മുൻകാലങ്ങളിൽ ഞങ്ങൾ ആളുകളോട് എങ്ങനെ പെരുമാറിയെന്നതിന്റെ ഫലങ്ങൾ നിർണ്ണയിക്കുന്നു അത് പോസ്റ്റ് ഫാക്ടോ ആണ് ഡിസ്പെറിറ്റ് ട്രീറ്റ്മൻറ്റ് മനഃപൂർവമായ വിവേചനമാണ് ആഡ്വർസ് ഇമ്പാക്റ്റ് മിക്ക കേസുകളിലും മനഃപൂർവമല്ലാത്ത വിവേചനമാണ് ഡിസ്പെറിറ്റ് ട്രീറ്റ്മൻറ്റ് മുൻവിധിയുള്ള പ്രവർത്തനങ്ങളെ സൂചിപ്പിക്കുന്നു ആഡ്വർസ് ഇമ്പാക്റ്റ് വ്യത്യസ്തമായ പ്രത്യാഘാതങ്ങളുള്ള നിഷ്പക്ഷമായ പ്രവർത്തനങ്ങളെ സൂചിപ്പിക്കുന്നു ഡിസ്പെറിറ്റ് ട്രീറ്റ്മൻറ്റ് സൂചിപ്പിക്കുന്നത് വിവിധ ഗ്രൂപ്പുകൾക്കുള്ള വ്യത്യസ്ത മാനദണ്ഡങ്ങളാണ് ആഡ്വർസ് ഇമ്പാക്റ്റ് സൂചിപ്പിക്കുന്നത് ഒരേ മാനദണ്ഡങ്ങളാണ് എന്നാൽ വ്യത്യസ്ത ജനവിഭാഗങ്ങൾക്ക് വ്യത്യസ്തമായ പ്രത്യാഘാതങ്ങളാവും നമ്മൾ ഏത് പക്ഷത്താണ് എന്ന് നമ്മൾ തീരുമാനിക്കണം രണ്ടും വിവേചനമായി കണക്കാക്കാം വിവേചന ആരോപണങ്ങൾ ഞങ്ങളുടെ സ്ഥാപനത്തിനെതിരെ ചുമത്തിയാൽ ഞങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യും നമ്പർ ഒന്ന് ബന്ധപ്പെട്ട തീരുമാനത്തിന്റെ കാരണമായി ഞങ്ങൾ എടുത്ത തീരുമാനത്തിന്റെ കാരണമായി ജോലിയുമായി ബന്ധപ്പെട്ടത് കാണിക്കണം ഞാൻ ഈ തീരുമാനം എടുത്തു കാരണം ഞാൻ പറയുന്നതെന്തും ഈ ആളുകൾ ചെയ്യേണ്ട ജോലിയുമായി ബന്ധപ്പെട്ടതാണ് അതിന് അവരുടെ പശ്ചാത്തലവുമായി യാതൊരു ബന്ധവുമില്ല നിങ്ങൾക്ക് അത് പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ മനഃപൂർവ്വമോ അല്ലാതെയോ ചില ജനവിഭാഗങ്ങളുടെ വിവേചനം ചെയ്തു അതിനാൽ ഒരാൾ വളരെ ശ്രദ്ധാലുവായിരിക്കണം മറ്റൊന്ന് സത്യസന്ധമായ തൊഴിൽ യോഗ്യതയാണ് സത്യസന്ധമായ തൊഴിൽ യോഗ്യത ഒരു പ്രത്യേക ജോലിക്കായി എല്ലാ ജീവനക്കാരിലും ഉണ്ടായിരിക്കേണ്ട ഒരു സ്വഭാവത്തെ സൂചിപ്പിക്കുന്നു ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഉദാഹരണം നൽകിയിട്ടുണ്ട് അതിനാൽ നിങ്ങൾക്ക് സ്ലൈഡുകൾ ലഭിക്കുമ്പോൾ നിങ്ങൾ ഇത് കാണും ഉദാഹരണത്തിന് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഫാക്കൽറ്റികളായ ഞങ്ങൾക്ക് ഇപ്പോൾ പിഎച്ച്ഡി ആവശ്യമാണ് നിങ്ങൾ ഒരു മികച്ച അധ്യാപകനായിരിക്കാം പക്ഷേ നിങ്ങൾക്ക് പിഎച്ച്ഡി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ഘട്ടത്തിലേക്ക് സ്ഥാനക്കയറ്റം ലഭിക്കില്ല അല്ലെങ്കിൽ നിങ്ങളെ സ്വീകരിക്കാൻ പോലും കഴിയില്ല നിങ്ങളെ ഒരു ലക്ചററായി എടുക്കാം പക്ഷേ നിങ്ങൾക്ക് പുരോഗമിക്കാൻ കഴിയില്ല അതിന് നിങ്ങളുമായി ഒരു ബന്ധവുമില്ല പക്ഷേ നിങ്ങൾക്ക് മറ്റ് പിഎച്ച്ഡികൾ നയിക്കണമെങ്കിൽ സംഭാവന നൽകണമെങ്കിൽ നിങ്ങൾ പേപ്പറുകൾ പ്രസിദ്ധീകരിക്കണം പക്ഷേ നിങ്ങൾക്ക് ബിരുദം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല അല്ലെങ്കിൽ പൈലറ്റുമാർക്ക് പൂർണ്ണ കാഴ്ചശക്തി വേണ്ടതിന്റെ ഉദാഹരണം നിങ്ങൾ മാനസികമായി വളരെ ശക്തനായിരിക്കാം എല്ലാം ശരി ആവാം പക്ഷേ ഒരു പൈലറ്റ് എന്ന നിലയിൽ നിങ്ങൾ ചില ദൂരങ്ങൾ കാണേണ്ടതുണ്ട് നിങ്ങളിൽ ഒരാൾക്ക് ഉറക്ക തകരാറുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉയർന്ന രക്തസമ്മർദ്ദമുണ്ടെങ്കിൽ പൈലറ്റുമാർക്ക് വളരെ ഉയർന്ന സമ്മർദ്ദ സാഹചര്യങ്ങൾ നേരിടേണ്ടിവരും അവർക്ക് ശരിയായി കാണാൻ കഴിയണം ഒരു നീണ്ട പറക്കലിന് മുമ്പ് അവർക്ക് ശരിയായി ഉറങ്ങാൻ കഴിയണം അതിനാൽ നിങ്ങൾക്കറിയാമോ നിങ്ങളെ നിയമിക്കാൻ കഴിയില്ല അതിന് നിങ്ങളുടെ ആരോഗ്യവുമായി യാതൊരു ബന്ധവുമില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് പറയാൻ കഴിയില്ല നിങ്ങൾ വിവേചനം കാണിക്കുന്നു കാരണം ഞാൻ രോഗിയാണ് ജോലിയുടെ ആവശ്യകതകൾ ഇങ്ങനെയാണ് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് അതിനാൽ ജോലി ശരിയായി നിർവഹിക്കുന്നതിന് ഈ പ്രത്യേക യോഗ്യത ആവശ്യമാണെന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയണം സീനിയോറിറ്റി സിസ്റ്റം നന്നായി സ്ഥാപിക്കുകയും എല്ലാ ജീവനക്കാർക്കും കഴിയുന്നത്ര നേരത്തെ തന്നെ ആശയവിനിമയം നടത്തുകയും വേണം അതിനാൽ നിങ്ങളുടെ തീരുമാനത്തിന് സീനിയോറിറ്റി ഒരു മാനദണ്ഡമാണെങ്കിൽ അവസാന നിമിഷത്തിൽ നിങ്ങൾക്ക് ഇന്നയാൾ മുതിർന്നവനാണ് എന്ന് പറയാൻ കഴിയില്ല അത് ജനങ്ങളോട് മുൻകൂട്ടി പറയണം ഓർഗനൈസേഷന്റെ സുരക്ഷിതവും കാര്യക്ഷമവുമായ പ്രവർത്തനത്തിന് തൊഴിൽ സമ്പ്രദായം ആവശ്യമായി വരുമ്പോൾ നിങ്ങൾക്ക് ബിസിനസ്സ് ആവശ്യകതയെക്കുറിച്ച് സംസാരിക്കാൻ കഴിഞ്ഞേക്കും കൂടാതെ വിവേചനപരമായ പ്രവർത്തിക്ക് അമിതമായ ഒരു ബിസിനസ്സ് ഉദ്ദേശ്യമുണ്ട് അതിനാൽ നിങ്ങൾക്ക് അടിയന്തിര സാഹചര്യത്തിൽ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ നിങ്ങൾ പറയുന്നു ഇന്നയാൾ ലഭ്യമായിരുന്നു എനിക്ക് ഈ വ്യക്തിയെ വിളിക്കേണ്ടിവന്നു കാരണം നിങ്ങൾ അവിടെ ഇല്ലായിരുന്നു കൂടാതെ നിങ്ങൾ പറയും ഞാൻ അടുത്ത വരിയിലായിരുന്നു എനിക്ക് ഇത് ചെയ്യേണ്ടിവന്നു അടിയന്തരാവസ്ഥയായിരുന്നു എനിക്ക് ഒരാളെ വേണമായിരുന്നു ഇന്നയാൾ അവിടെ ഉണ്ടായിരുന്നു എന്നിരുന്നാലും ഈ വ്യക്തി നിങ്ങളേക്കാൾ 10 വർഷം ജൂനിയറായിരിക്കാം പക്ഷേ വ്യക്തിക്ക് കഴിവുണ്ട് ഞാൻ അവനെ പരിശീലിപ്പിച്ചു കൂടാതെ ക്ഷമിക്കണം നിങ്ങൾ അവധിയിലായിരുന്നു പക്ഷേ നിങ്ങൾക്ക് ആ അവസരം നൽകാൻ കഴിഞ്ഞില്ല പക്ഷേ അത് വളരെ വ്യക്തവും ബോധ്യപ്പെടുത്തുന്നതുമായ രീതിയിൽ പ്രകടിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയണം അല്ലെങ്കിൽ വിവേചനം കാണിച്ചതിന് നിങ്ങൾക്കെതിരെ കേസെടുക്കാം ഭിന്നശേഷിയുള്ള ജീവനക്കാർക്ക് ന്യായമായ താമസസൌകര്യം ആവശ്യമാണ് തൊഴിലുടമകൾ വീണ്ടും സമ്മതിക്കുന്നു ഇവ പാശ്ചാത്യ അല്ലെങ്കിൽ യുഎസ് അധിഷ്ഠിത ഉത്തരവുകളാണ് പക്ഷേ അവ ലോകമെമ്പാടുമുള്ള മിക്ക രാജ്യങ്ങൾക്കും ബാധകമാണ് അതിനാൽ തൊഴിലാളികളുടെ അറിയപ്പെടുന്ന വൈകല്യങ്ങൾക്ക് തൊഴിലുടമകൾ ന്യായമായ താമസസൌകര്യം ഒരുക്കണം ഉദാഹരണത്തിന് ഈ ദിവസങ്ങളിൽ ഇന്ത്യയിൽ പോലും ധാരാളം സ്ഥലങ്ങളിൽ വീൽചെയർ ആക്സസ് ആക്കേണ്ടതുണ്ട് ഇന്ത്യൻ ശൈലിയിലുള്ള ടോയ്ലറ്റ് സീറ്റുകൾ എല്ലാ നിലയിലും എല്ലാ കെട്ടിടങ്ങളിലും ഓഫീസ് കെട്ടിടങ്ങളിലും ഉണ്ടായിരിക്കണം കാരണം ഇന്ത്യക്കാർ അവരുടെ ടോയ്ലറ്റുകൾ ഉപയോഗിക്കുന്നത് അങ്ങനെയാണ് അതിനാൽ അത്തരം കാര്യങ്ങൾ അത് വൈകല്യങ്ങളല്ല അതിനാൽ നിങ്ങൾക്ക് ഒരു ഇന്ത്യൻ സീറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്യേണ്ടതാണ് അതൊരു നിർബന്ധമാണ് പക്ഷേ ഞങ്ങൾ വൈകല്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതായത് ജീവനക്കാരുടെ അറിയപ്പെടുന്ന വൈകല്യങ്ങൾക്ക് നിങ്ങൾക്ക് പിന്തുണ ഉണ്ടായിരിക്കണം ന്യായമായ താമസസൌകര്യം നൽകാതിരിക്കാൻ തൊഴിലുടമകൾക്ക് ഭിന്നശേഷിക്കാരന്റെ തൊഴിൽ നിഷേധിക്കാനാവില്ല നിങ്ങൾക്ക് എന്റെ സ്ഥാപനത്തിൽ എനിക്ക് വളരെയധികം വികലാംഗരില്ല അതിനാൽ ഞാൻ ഗ്രൌണ്ട് ഫ്ലോർ വീൽചെയർ ആക്സസ് ആക്കി മാറ്റില്ല എന്ന് പറയാൻ കഴിയില്ല ഒരാൾ വന്നാൽ പോലും വീൽചെയർ പ്രവേശനക്ഷമത നൽകണം ഉദാഹരണത്തിന് ഇന്ത്യയിൽ പക്ഷാഘാതം ബാധിച്ച ജീവനക്കാർക്ക് ഉപകരണങ്ങൾ നൽകാനുള്ള കഴിവ് പല സ്ഥാപനങ്ങൾക്കും ഇല്ല അതിനാൽ അത് ബുദ്ധിമുട്ടായി മാറുന്നു ജീവനക്കാരൻ സ്വന്തം ഉപകരണങ്ങൾ കൊണ്ടുവരുന്നത് വരെ അവർക്ക് താമസ സൌകര്യം ഒരുക്കാൻ കഴിയില്ലെന്ന് നിങ്ങൾക്ക് പറയാനാവില്ല പക്ഷേ ഈ ഉപകരണം നൽകാൻ നിങ്ങൾക്ക് പണമില്ലായിരിക്കാം വ്യക്തി ആ സ്ഥാനത്തിന് യോഗ്യനല്ലെങ്കിൽ താമസസൌകര്യം ആവശ്യമില്ല ചില പദ്ധതികൾ അഫർമേറ്റീവ് ആക്ഷൻ പ്ലാനുകൾ ദൃഢമായ പ്രവർത്തനത്തിനായി ഞങ്ങൾ എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത് ഉൾപ്പെടുത്തൽ ഘട്ടങ്ങൾ ഉപയോഗ വിശകലനം എന്നിവയ്ക്കായി ഞങ്ങൾ എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത് എന്താണ് വേണ്ടത് എന്നതിന്റെ വിശകലനമാണ് ആദ്യപടി അതിനാൽ ഞങ്ങൾ ഈ വിശകലനം നടത്തുന്നത് ഓർഗനൈസേഷനിലെ എല്ലാ ജോലികളെയും വർഗ്ഗീകരണങ്ങളായി വിഭജിച്ച് നിലവിലെ തൊഴിലാളികളുടെ ജനസംഖ്യാപരമായ ഘടന ഞങ്ങൾ നിർണ്ണയിക്കുന്നു തുടർന്ന് ലഭ്യമായ തൊഴിൽ വിപണിയിലെ അതേ സംരക്ഷിത വിഭാഗങ്ങളുടെ ശതമാനം ഞങ്ങൾ നിർണ്ണയിക്കുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ സ്വയം ഉൾക്കാഴ്ച അതിനാൽ വ്യവസായം എന്താണ് ചെയ്യുന്നതെന്ന് ഞങ്ങൾ കണ്ടെത്തുന്നു കൂടാതെ ഇത് ചെയ്യുന്നതിനുള്ള ഒരു മാർഗ്ഗം ഈ 8 ഘടക ലഭ്യത വിശകലനം ഉപയോഗിച്ചാണ് ഇവിടെ പട്ടികപ്പെടുത്തിയിരിക്കുന്ന വ്യത്യസ്തമായ 8 ഘടകങ്ങൾ ഞങ്ങൾ നോക്കുന്നു പ്രാദേശിക ജനസംഖ്യ പ്രാദേശിക തൊഴിൽ ചെയ്യുന്ന തൊഴിലാളികൾ തൊഴിൽ സേന യോഗ്യതയുള്ള തൊഴിലാളികൾ തൊഴിൽ വിപണിയിലെ യോഗ്യതയുള്ള തൊഴിലാളികൾ നിലവിലെ ജീവനക്കാർ പ്രാദേശിക വിദ്യാഭ്യാസ പരിശീലന പരിപാടികളിൽ ബിരുദം നേടിയവർ തൊഴിലുടമ സ്പോൺസർ ചെയ്യുന്ന പരിശീലന പരിപാടികളിൽ പങ്കെടുക്കുന്നവർ എന്നിവ ഉൾപ്പെടുന്നു ഞങ്ങൾ താരതമ്യ ചാർട്ട് വരയ്ക്കുന്നു എന്നിട്ട് എവിടെയാണ് നമ്മൾ ചില കാര്യങ്ങൾ ബാലൻസ് ചെയ്യേണ്ടത് എന്ന് ഞങ്ങൾ തീരുമാനിക്കുന്നു ഘട്ടം രണ്ട് ലക്ഷ്യങ്ങളും ടൈംടേബിളുകളും സജ്ജമാക്കുക എന്നതാണ് ഉപയോഗശൂന്യതയുടെ തോത് അവർ കണക്കിലെടുക്കണം എത്ര ആളുകളെ നമുക്ക് ആവശ്യമുണ്ട് എത്ര വേഗത്തിലാണ് തൊഴിലാളികൾ വേർപിരിഞ്ഞ് പോകുന്നത് എത്ര പേർ നമ്മളെ വിട്ട് പോയി പിന്നെ തിരിച്ചു വരുന്നു ഞങ്ങൾ എത്ര പേരെ വാർഷികാടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ആനുകാലികമായി നിയമിക്കുന്നു തൊഴിൽ ശക്തി വളരുന്നുണ്ടോ അല്ലെങ്കിൽ അതോ ചുരുങ്ങുകയാണോ അല്ലെങ്കിൽ ഞങ്ങളുടെ സ്ഥാപനത്തിന് ഞങ്ങൾ അവകാശം നൽകിയേക്കാം അതോ ചുരുങ്ങുകയാണോ ഒരുപക്ഷെ ഞങ്ങളുടെ സ്ഥാപനം വലിപ്പം കുറയ്ക്കുന്നതാകാം ഞങ്ങൾ വലിപ്പം കുറയ്ക്കുക മാത്രമാണ് ചെയ്യുന്നത് തൊഴിലുടമ ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്ന പ്രവർത്തനങ്ങളുടെ തരങ്ങൾ പ്രവർത്തന പദ്ധതികൾ നമുക്ക് എത്ര പേരെ വേണമെന്ന് തീരുമാനിച്ചുകഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് ഞങ്ങൾ ലക്ഷ്യങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് ഞങ്ങൾ ടൈംടേബിളുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് അതിനുശേഷം ഞങ്ങൾ ഒരു പ്രവർത്തന പദ്ധതി തയ്യാറാക്കേണ്ടതുണ്ട് എന്ത് ക്രിയാത്മക നടപടികളാണ് സ്വീകരിക്കേണ്ടതെന്ന് ഞങ്ങൾ കൃത്യമായി തീരുമാനിക്കുന്നു യുഎസ് സിസ്റ്റത്തിൽ നിന്നുള്ള ചില നിർദ്ദേശങ്ങൾ ഞങ്ങൾ റിക്രൂട്ട് ചെയ്യുന്നത് പരിരക്ഷിത ക്ലാസ് അംഗങ്ങളാണ് ഞങ്ങൾ ജോലികൾ രൂപകൽപ്പന ചെയ്തേക്കാം അതിനാൽ പ്രാതിനിധ്യം കുറവായ തൊഴിലാളികൾ യോഗ്യതയുള്ളവരാകാനുള്ള സാധ്യത കൂടുതലാണ് സജ്ജരാകാത്ത അപേക്ഷകർക്ക് ഞങ്ങൾ പ്രത്യേക പരിശീലനങ്ങൾ നൽകിയേക്കാം ഞങ്ങൾ അവർക്ക് പരിശീലനം നൽകാം ഞങ്ങൾ അവർക്ക് ചിലത് അധികമായി നൽകിയേക്കാം നിങ്ങൾക്കറിയാമോ ഒരു നിശ്ചിത സമയത്തേക്ക് ഞങ്ങൾ അവർക്ക് കൂടുതൽ പിന്തുണ നൽകിയേക്കാം അങ്ങനെ അവർ അവരുടെ സഹപ്രവർത്തകരുമായി തുല്യരായിരിക്കും കൂടാതെ അനാവശ്യമായ തടസ്സങ്ങൾ നീക്കം ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് അവർക്ക് കൂടുതൽ സമയം നൽകാം ഉദാഹരണത്തിന് ഇന്ത്യയിൽ ജോലികൾക്കായുള്ള അപേക്ഷകളിൽ നിന്ന് വിളിക്കുമ്പോൾ വിദൂര പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് സമയപരിധിക്കുള്ളിൽ എത്തിച്ചേരാൻ കഴിഞ്ഞേക്കില്ലെന്ന് ഞങ്ങൾക്കറിയാം അതിനാൽ ഒരു വ്യവസ്ഥയുണ്ട് രാജ്യത്തിന്റെ വടക്ക് കിഴക്കൻ മേഖലയിൽ നിന്നുള്ള ആളുകൾ ലേ അല്ലെങ്കിൽ ഹിമാലയത്തിന്റെ മുകൾ ഭാഗത്തുള്ള ആളുകൾ ചിലപ്പോൾ ആദിവാസി മേഖലകളിൽ നിന്നുള്ള ആളുകൾ ആൻഡമാൻ ലക്ഷദ്വീപ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ ഒരു നിശ്ചിത എണ്ണം അധിക ദിവസങ്ങൾ എടുക്കാം അതിനാൽ സമയപരിധി വ്യത്യസ്തമാണ് അതിനാൽ അവർക്ക് തുല്യ അവസരമുണ്ട് പരസ്യം കാണാനും തീരുമാനിക്കാനും തുടർന്ന് അവരുടെ അപേക്ഷ അയയ്ക്കുന്നതിന് അവർക്ക് എത്ര അധിക സമയം ആവശ്യമാണെന്ന് ഞങ്ങൾ കണക്കാക്കുന്നു കൂടാതെ ഞങ്ങൾ അവർക്ക് അത്രയും സമയം നൽകുന്നു അതിനാൽ ജോലിക്കുള്ള അനാവശ്യ തടസ്സങ്ങൾ നിങ്ങൾ നീക്കം ചെയ്യുന്നു നിങ്ങൾ അവർക്ക് കുറച്ച് കൂടെ പിന്തുണ നൽകുക തപാൽ കാലതാമസം പോലെയുള്ള ഈ തടസ്സങ്ങൾ അവരുടെ അപേക്ഷകളെ ബാധിക്കില്ലെന്ന് ഉറപ്പാക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ അപേക്ഷകൾ ഈ തീയതിയിൽ പോസ്റ്റ്മാർക്ക് ചെയ്തിരിക്കണം എന്ന് പറയുക അതിനാൽ സ്റ്റാമ്പ് അതേ തീയതിയിൽ തന്നെ ആയിരിക്കണം അത് പ്രവൃത്തി ദിവസമായിരിക്കണം പിന്നെ ഞങ്ങളിലേക്ക് എത്താൻ 20 ദിവസമെടുത്താൽ ആ സമയം ഞങ്ങൾ കണക്കാക്കില്ല അതിനാൽ അത് ചെയ്യാനുള്ള മറ്റൊരു മാർഗമാണ് ഇത് വിപരീത വിവേചനം വിവേചന നിരക്കുകൾ ഒഴിവാക്കാനുള്ള ഞങ്ങളുടെ ശ്രമങ്ങളിൽ എല്ലാവരേയും ഉൾക്കൊള്ളാനുള്ള ഞങ്ങളുടെ ശ്രമങ്ങളിൽ സംരക്ഷിക്കപ്പെടാത്ത തൊഴിലാളികളോട് ഞങ്ങൾ അന്യായം കാണിച്ചേക്കാം പിന്നെ നമ്മൾ എന്ത് ചെയ്യും അതൊരു വെല്ലുവിളിയാണ് അതിനെകുറിച്ച് ഒരു ചർച്ച നടക്കുന്നു തുല്യമായ തൊഴിൽ അവസരത്തിൽ നിങ്ങൾ എങ്ങനെയാണ് അപകടങ്ങൾ ഒഴിവാക്കുക പ്രാതിനിധ്യം കുറഞ്ഞ ഗ്രൂപ്പുകൾക്ക് പരിശീലനം നൽകുക ഒരു പരാതി പരിഹാര പ്രക്രിയ സ്ഥാപിക്കുക എല്ലായ്പ്പോഴും ഒരു വിവേചനം ഉണ്ടാകുമ്പോൾ ആരുടെ അടുത്തേക്ക് പോകണമെന്ന് ആളുകൾ അറിഞ്ഞിരിക്കണം കൂടാതെ ഇത് ന്യായവും സൌകര്യപ്രദവും സുരക്ഷിതവുമായ പ്രക്രിയയായിരിക്കണം നിങ്ങൾ എപ്പോഴും എപ്പോഴും എപ്പോഴും നിങ്ങളുടെ തീരുമാനങ്ങൾ രേഖപ്പെടുത്തണം കൂടാതെ നിങ്ങളുടെ തീരുമാനങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ജീവനക്കാരോട് സത്യസന്ധത പുലർത്തുക പ്രത്യേകിച്ചും സാധ്യതയുള്ള വ്യവഹാരങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്ന തീരുമാനങ്ങൾ നിങ്ങൾ അറിയേണ്ട വിവരങ്ങൾ മാത്രം ചോദിക്കുക റിക്രൂട്ട് ചെയ്യുന്നതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു ഞങ്ങളുടെ ജീവനക്കാരുടെ ജീവിതപങ്കാളികൾക്ക് ആരോഗ്യ ആനുകൂല്യങ്ങൾ നൽകാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ അവരുടെ വൈവാഹിക നില ഞങ്ങൾ അറിയേണ്ടതില്ല ഞങ്ങളുടെ ജീവനക്കാർക്ക് മതപരമായ അവധി ദിനങ്ങൾ നൽകാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ അവരുടെ മതം എന്താണെന്ന് ഞങ്ങൾക്ക് അറിയേണ്ടതില്ല നിങ്ങൾക്കറിയാമോ ഇത് വ്യക്തിഗത വിവരമാണ് മതം വ്യക്തിപരമായ കാര്യമാണ് വിവാഹം വ്യക്തിപരമായ കാര്യമാണ് ഈ വിശദാംശങ്ങൾ ആരും അറിയേണ്ടതില്ല ഞാൻ ചെയ്യുന്ന ജോലിയെ നേരിട്ട് ബാധിക്കാൻ പോകുന്നില്ലെങ്കിൽ എന്തിനാണ് നമ്മൾ അത് അറിയുന്നത് നിങ്ങൾക്കറിയാമോ അത് അനാവശ്യമായി ചിലരെ അസ്വസ്ഥരാക്കും അതിനാൽ നിങ്ങൾ ഈ കാര്യങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ ഞങ്ങളുടെ സ്ഥാപനത്തിൽ ആളുകൾ കൂടുതൽ സ്വാസ്ഥ്യരാകും ഇന്നത്തേക്ക് ഇത്രയൊള്ളു ദയവായി ഈ പ്രശ്നങ്ങളെ കുറിച്ച് ചിന്തിക്കുക ഒപ്പം ഫോറം വഴി എന്നെ ബന്ധപ്പെടാൻ മടിക്കേണ്ടതില്ല എങ്ങനെ എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളോ സംശയങ്ങളോ എന്തെങ്കിലും ആശയങ്ങളോ ഉണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങൾ കൂടുതൽ വിശദമായി നിങ്ങളുടെ ക്ലാസ് മുറികളിലോ നിങ്ങളുടെ സമപ്രായക്കാർക്കിടയിലോ ചർച്ച ചെയ്യാം വളരെയധികം നന്ദി